പുതിയ മൊഡ്യൂളിലേക്കു സ്വാഗതം ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ വിവിധ ആപ്ലിക്കേഷനുകളാണ് കഴിഞ്ഞ മൊഡ്യൂളിൽ നാം കണ്ടത് വിവിധ തരം ഫിൽറ്ററുകളും നാം കണ്ടു എലമെന്റുകൾക്കനുസരിച്ച് അത് പാസീവോ ആക്ടീവോ ആകാം ഫ്രീക്വൻസിയിൽ അധിഷ്ഠിതമായ ഫിൽറ്ററുകളും നാം കണ്ടു ലോ ഫ്രീക്വൻസി കടത്തിവിടുകയും ഹൈ പാസ് തടയുകയും ചെയ്യുന്നുവെങ്കിൽ അത് ലോ പാസ് ഫിൽറ്ററാണ് ഹൈ പാസ് ഫ്രീക്വൻസി കടത്തിവിടുകയും ലോ പാസ് ഫ്രീക്വൻസി തടയുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഹൈ പാസ് ഫിൽറ്ററാണ് എന്താണ് ഹൈ പാസ് ഫിൽറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ ഫ്രീക്വൻസിയുള്ള ഒരു പ്രത്യേക കൂട്ടം സിഗ്നലുകളെ കടത്തിവിടുകയും ലോ ഫ്രീക്വൻസി സിഗ്നലുകളെ തടയുകയുമാണ് അതു ചെയ്യുന്നത് ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെ രൂപകല്പന ചെയ്യാം എന്നതാണ് ഇന്നു നാം ചർച്ചചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് മൂന്നു ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് ഫിൽറ്ററുകളെ ക്കുറിച്ചാണ് മറ്റു രണ്ടെണ്ണം റെക്ടിഫയറകളെക്കുറിച്ചും ചിത്രം കാണുക ലോ പാസ് ഫിൽറ്ററിന്റെ നേർവിപരീതമാണ് ഹൈ പാസ് ഫിൽറ്റർ ഒരു ഹൈ പാസ് ഫിൽറ്ററിന്റെ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ചിത്രം ഒന്നിൽ കാണുന്നത് ഹൈ പാസ് ഫിൽറ്റർ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു മുകളിലുള്ള എല്ലാ ഫ്രീക്വൻസികളെയും കടത്തിവിടുകയും താഴെയുള്ള എല്ലാ ഫ്രീക്വൻസികളെയും തടയുകയും ചെയ്യും നാം നേരത്തേ ലോ പാസ് പാസീവ് ഫിൽറ്റർ കണ്ടിരുന്നു അതിൽ ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓർമകാണും നമ്മളൊരു ലോ പാസ് ഫിൽറ്റർ വരയ്ക്കുകയാണെങ്കിൽ അതിലൊരു റെസിസ്റ്ററുണ്ട് ഒപ്പം ഒരു കപ്പാസിറ്ററുമുണ്ട് കപ്പാസിറ്റർ ഗ്രൌണ്ടിനു കുറുകേയാണ് നാം ഔട്ട്പുട്ട് കണക്കാക്കിയിരുന്നത് ഹൈ പാസ് ഫിൽറ്ററിൽ എന്താണ് ഉണ്ടാകുന്നത് ഹൈ പാസ് ഫിൽറ്റർ ഒരു പാസീവ് ഫിൽറ്ററുമാണ് ഇവിടെ ലോ പാസ് സർക്യൂട്ടിലെ റെസിസ്റ്ററിന്റെ സ്ഥാനം കപ്പാസിറ്ററും കപ്പാസിറ്ററിന്റെ സ്ഥാനം റെസിസ്റ്ററും എടുക്കുന്നു സ്ഥാനങ്ങൾ പരസ്പരം മാറുന്നുവെന്നു മാത്രം അതോടെ ലോ പാസ് ഫിൽറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഹൈ പാസ് ഫിൽറ്റർ കിട്ടുന്നു ചിത്രം രണ്ട് നോക്കൂ ഇതിൽ കാണുന്നതുപോലെ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും സീരീസ് ആയി കണക്ട് ചെയ്താൽ ഒരു ലളിതമായ പാസീവ് ഹൈ പാസ് ഫിൽറ്റർ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇത്തരം ഫിൽറ്റർ അറേഞ്ച്മെന്റിൽ ഇൻപുട്ട് സിഗ്നൽ Vin റെസിസ്റ്ററും കപ്പാസിറ്ററും ചേർന്നുള്ള സീരീസിലേക്കാണ് നൽകുന്നത് റെസിസ്റ്ററുമായി സീരീസിലാണ് കപ്പാസിറ്ററുള്ളത് റെസിസ്റ്ററിനു കുറുകെയാണ് ഔട്ട്പുട്ട് സിഗ്നൽ എടുക്കുന്നത് ഇത്തരം ഫിൽറ്ററുകൾ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ എന്നും അറിയപ്പെടുന്നു ഓരോ ആർ സി എന്നിവ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫസ്റ്റ് ഓർഡർ ലോ പാസ് എന്നിങ്ങനെ വിളിക്കാറുള്ളത് ഓർമയുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ വൺ പോൾ ഫിൽറ്റർ എന്നും ഇതിനു പേരുണ്ട് ഇതിന് ഒരേയൊരു റിയാക്ടീവ് കംപോണന്റ് മാത്രമേയുള്ളൂ അത് സർക്യൂട്ടിലുള്ള കപ്പാസിറ്ററാണ് ഉദാഹരണം കാണുക 0 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററും 10 കിലോ ഓംസ് റെസിസ്റ്ററും സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിംപിൾ പാസീവ് ഹൈ പാസ് ഫിൽറ്ററിന്റെ കട്ട് ഓഫ് അഥവാ ബ്രേക്ക്പോയിന്റ് ഫ്രീക്വൻസി കണക്കാക്കുക ഉത്തരം കാണുക ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിലേക്കു വന്നാൽ എങ്ങനെയാവും ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് ആക്ടീവ് കംപോണന്റ് ഉപയോഗിക്കേണ്ടതുണ്ട് ഓപ് ആംപ് ആണ് ഇവിടെ നമ്മുടെ ആക്ടീവ് കംപോണന്റ് ഇവിടെ നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് യൂണിറ്റി ആംപ്ലിഫയർ അല്ലെങ്കിൽ ബഫർ അല്ലെങ്കിൽ വോൾട്ടേജ് ഫോളോവർ ആണ് ഉപയോഗിക്കുന്നത് പാസീവ് ഹൈ പാസ് ഫിൽറ്ററിനെ നോൺ ഇൻവെർട്ടിംഗ് യൂണിറ്റി ആംപ്ലിഫയറിലേക്കു കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ ലഭിക്കുന്നു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയറിനു പകരം ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറുകളും inverting non inverting amplifier നമുക്ക് ഉപയോഗിക്കാം ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിലെ അടിസ്ഥാന ഇലക്ട്രിക്കൽ ഓപ്പറേഷൻ നാം ആർസി പാസീവ് ഹൈ പാസ് ഫിൽറ്ററിൽ കണ്ടതിനു സമാനമാണ് സർക്യൂട്ടിൽ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അഥവാ ഓപ് ആംപ് ഉണ്ട് എന്നതു മാത്രമാണ് വ്യത്യാസം ഫിൽറ്റർ രൂപകല്പനയിൽ ഉൾപ്പെട്ട അത് ആംപ്ലിഫിക്കേഷനും ഗെയിൻ കൺട്രോളും തരുന്നതാണ് ഇവിടെയും നിങ്ങളുടെ ഫോർമുല fc 12πRC മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് ഓർമിക്കുക അപ്പോൾ നാം ഈ C R എന്നിവ നോൺ ഇൻവെർട്ടിംഗ് യൂണിറ്റിൽ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നോൺ ടെർമിനൽ ആയാണ് അപ്ലൈ ചെയ്യുന്നത് ഗെയിൻ 1 ഉും AV 1 ഉം ആയിരിക്കെ യൂണിറ്റി ഗെയിൻ വോൾട്ടേജ് ഫോളോവറും അപ്പോൾ ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ ഡിഫൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഇത് ഗ്രൌണ്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രൌണ്ട് ചെയ്തതായി കാണിച്ചില്ലെങ്കിൽ അത് തെറ്റാണ് എന്തെന്നാൽ വോൾട്ടേജ് നൽകുമ്പോഴും കണക്കാക്കുമ്പോഴും അത് ഗ്രൌണ്ടുമായി ബന്ധപ്പെടുത്തിയാണ് പാസീവ് ആർസി ഫിൽറ്ററിനൊപ്പം ആംപ്ലിഫിക്കേഷനായി ഒരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ഇത് ആംപ്ലിഫിക്കേഷനോടെയുള്ള ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററായി മാറുന്നു എങ്ങനെ ആംപ്ലിഫിക്കേഷൻ ഗെയിൻ മാറ്റൽ എന്നിവയ്ക്കായി R1 R2 എന്നിവയുണ്ട് R1ന്റെ സഹായത്തോടെ ഗെയിൻ മാറ്റാം R2 ഉപയോഗിച്ചും ഇവ രണ്ടിന്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ചും ഗെയിനിൽ മാറ്റം വരുത്താം ഫോർമുല കാണുക ഇവിടെ AF എന്നത് ഫിൽറ്ററിന്റെ പാസ് ബാൻഡ് ഗെയിൻ ആണ് അതായത് 1R2R1 എന്തുകൊണ്ടെന്നാൽ ഇതൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന് 1R2R1 ഗെയിൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാം AF എന്നത് ഹെർട്സിൽ ഉള്ള ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ് അപ്പോൾ fc ആണ് ഹെർട്സിൽ നിങ്ങളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈ പ്രത്യേക സർക്യൂട്ടിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് പീക് ടു പീക് വോൾട്ടേജ് Vin Vout എന്നിവ കണക്കിലെടുത്താൽ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്യുന്നതായി കാണാം ഔട്ട്പുട്ട് വോൾട്ടേജിലേക്കു വരുമ്പോൾ പീക് ടു പീക് വോൾട്ടേജ് ഉയർന്നതാണ് നിങ്ങൾക്ക് 1R2R1 ആംപ്ലിഫിക്കേഷനാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക മാത്രമല്ല ഒപ്പം ഒരു ഹൈ പാസ് ഫിൽറ്റർ കൂടിയാണ് നിങ്ങൾ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആംപ്ലിഫിക്കേഷനില്ലാത്ത ഹൈ പാസ് ഫിൽറ്റർ ആയിരിക്കും നമുക്ക് അടുത്ത സ്ലൈഡിലേക്കു പോകാം ലോ പാസ് ഫിൽറ്ററുകളുടെ കാര്യമെടുത്താൽ ഇത് VoutVin ആയിരിക്കും AF നേക്കാൾ ഉയർന്നതും ആയിരിക്കും നാം നേരത്തേ കണ്ടതുപോലെ ഇത് തുല്യമായിരിക്കും ഇത് കുറഞ്ഞതായിരിക്കും ലോ പാസ് ഫിൽറ്ററുകളുടേതുപോലെ ഹൈ പാസ് ആക്ടീവ് ഫിൽറ്ററിന്റെ പ്രവർത്തനം ഫ്രീക്വൻസി ഗെയിൻ ഇക്വേഷൻ ഉപയോഗിച്ച് പരിശോധിക്കാം കട്ട് ഓഫ് അല്ലെങ്കിൽ കോർണർ ഫ്രീക്വൻസി ഇതേ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താം ഇനി നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം 10 നാനോ ഫാരഡ് കപ്പാസിറ്റൻസിൽ 2 ഗെയിനും 1 കിലോ ഹെർട്സ് കട്ട് എഫ് ഫ്രീക്വൻസി അഥവാ കോർണർ ഫ്രീക്വൻസിയുമുള്ള ഒരു നോൺ ഇൻവെർട്ടിംഗ് ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് രൂപകല്പന ചെയ്യുക ചുവടെ കാണുന്ന വിധം ഉത്തരം കണ്ടെത്താം R1 R2 10 കിലോ ഓം രണ്ടു റെസിസ്റ്ററുകളുടെ അനുയോജ്യമായ വാല്യൂ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് R2 വിനെ R1 കൊണ്ടു ഹരിച്ചാൽ കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കണം അങ്ങനെയെങ്കിൽ റെസിസ്റ്റർ R1 റെസിസ്റ്റർ R2 വിനു തുല്യമായിരിക്കണം പാസ് ബാൻഡ് ഗെയിൻ AF2 ആയിരിക്കുന്നതിനാലാണ് ഇത് അപ്പോൾ നമുക്ക് രണ്ടു ഫീഡ്ബാക്ക് റെസിസ്റ്ററുകൾക്ക് അനുയോജ്യമായ വാല്യൂ 10 കിലോ ഓം എന്നു തെരഞ്ഞെടുക്കാം 1 കിലോ ഹെർട്സ് കട്ട് ഓഫ് അഥവാ കോർണർ ഫ്രീക്വൻസിയുള്ള ഹൈ പാസ് ഫിൽറ്ററിന്റെ ആർ സി എന്നിവയുടെ വാല്യൂ യഥാക്രമം 16 കിലോ ഓം 10 നാനോ ഫാരഡ് എന്നിങ്ങനെ ആയിരിക്കും 2 പാസ് ബാൻഡ് ഗെയിൻ സൃഷ്ടിക്കാൻ ഫീഡ്ബാക്ക് റെസിസ്റ്ററുകളുടെ വാല്യൂ ഓരോന്നിനും 10 കിലോ ഓംസ് വീതം ആയിരിക്കണം ചിത്രം കാണുക ഞാൻ ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരിക്കുന്നുവെന്നു കരുതുക 100 ഹെർട്സ് 200 500 ഹെർട്സ് എന്നിങ്ങനെ വ്യത്യസ്ത വോൾട്ടേജ് ഗെയിനുകൾ ലഭിക്കും അതിനെ ഡെസിബെൽസ് ആയി കണക്കാക്കിയാൽ എനിക്ക് ഫ്രീക്വൻസി വേഴ്സസ് ഡെസിബെൽ അല്ലെങ്കിൽ ഫ്രീക്വൻസ് വേഴ്സസ് ഗെയിൻ എന്നിങ്ങനെ പ്ലോട്ട് ചെയ്യാൻ കഴിയും ഈ ഫ്രീക്വൻസി മുതൽക്ക് ഇത് അനുവദിക്കുന്നതും ഇതാണ് പാസ് ബാൻഡ് എന്നും ഈ പ്രത്യേക റേഞ്ചിനു താഴെയുള്ള ഫ്രീക്വൻസി അനുവദിക്കില്ലെന്നും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ എന്തുകൊണ്ടാണ് 3ഡിബി നിങ്ങൾതന്നെ കണ്ടെത്തുക ഇവിടെ സ്റ്റോപ് ബാൻഡ് ഇവിടെ പാസ് ബാൻഡ് അങ്ങനെ ഇതാണ് നിങ്ങളുടെ ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ ഫ്രീക്വൻസി ഗെയിൻ എന്നിവ വച്ച് നമുക്കിത് രൂപകല്പന ചെയ്യാമോ നമുക്കു നോക്കാം പിസ്പൈസ് മോഡൽ ഉപയോഗിച്ച് തയാറാക്കിയ പ്ലോട്ടാണ് ചിത്രത്തിൽ 1 കിലോ ഹെർട്സ് കട്ട് ഓഫ് ഫ്രീക്വൻസിയും 10 നാനോ ഫാരഡ് കപ്പാസിറ്ററുമാണെങ്കിൽ എന്താണു ലഭിക്കുക എന്തായിരിക്കും നിങ്ങളുടെ പാസ് ബാൻഡ് എന്തായിരിക്കും സ്റ്റോപ്പ് ബാൻഡ് ഇവിടെ നോക്കുക ഇതാണ് ബയാസ് വോൾട്ടേജ് ഗെയിൻ 1R2R3 ആണ് കപ്പാസിറ്റർ ഫിൽറ്ററാകും അപ്പോൾ നിങ്ങൾ ഇവിടെ സിഗ്നൽ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിനു കുറുകേ വോൾട്ടേജ് കണക്കാക്കാം ഇതുപോലെയാണ് പീക് ലഭിക്കുക ഇങ്ങനെ സ്റ്റോപ്പ് ബാൻഡും പാസ് ബാൻഡും കണ്ടുപിടിക്കണം പിസ്പൈസ് സോഫ്റ്റ് വെയർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയും സിമുലേഷൻ ചെയ്യാനാവും ഇനി യഥാർഥ പരീക്ഷണം ചെയ്തുനോക്കിയാലോ പാസീവ് ഹൈ പാസ് ഫിൽറ്റർ കണക്ട് ചെയ്ത് ഇൻപുട്ടിൽ വ്യത്യസ്ത സിഗ്നലുകൾ നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് 5 വോൾട്ട് പീക് ടു പീക് ആദ്യം നൽകി ഔട്ട്പുട്ട് നിരീക്ഷിക്കണം ശേഷം ഫ്രീക്വൻസി കുറച്ചുകൊണ്ടുവരണം ശ്രദ്ധിക്കുക ഫ്രീക്വൻസി തുടർച്ചയായി കുറച്ചുകൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് സർക്യൂട്ട് കാണുക ഇവിടെ R C എന്നിവയുണ്ട് കപ്പാസിറ്ററിന്റെ വാല്യൂ 2 1 മൈക്രോ ഫാരഡ് ആണ് 10 കിലോ ഓം വാല്യൂ ആണ് റെസിസ്റ്ററിന് ഇൻപുട്ട് 5 വോൾട്ട് 5 കിലോ ഹെർട്സ് ഫ്രീക്വൻസി നൽകുന്നു ഈ പ്രത്യേക സിഗ്നലിന് എന്താണ് ഔട്ട്പുട്ട് Vout ലഭിക്കുന്നത് എന്നു കണ്ടെത്തണം ഇനി എന്താണ് ചെയ്യേണ്ടത് Vout കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറച്ചുതുടങ്ങാം 5 കിലോ ഹെർട്സിൽനിന്ന് 50 ഹെർട്സിലേക്കാണ് സാവധാനത്തിൽ കുറയ്ക്കേണ്ടത് ഇങ്ങനെ ഓരോ തവണ ഫ്രീക്വൻസി താഴ്ത്തുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ശ്രദ്ധിക്കണം ഔട്ട്പുട്ടിലെ സിഗ്നൽ ഏതു വിധത്തിൽ ഏത് ആകൃതിയിൽ ഉള്ളതാണ് എന്നതും നിരീക്ഷിക്കണം 5 കിലോ ഹെർട്സിൽ 5 വോൾട്ട് പീക് ടു പീക് ജനറേറ്റ് ചെയ്യാൻ നാം ഫങ്ഷൻ ജനറേറ്റർ ആണ് ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് Vout കണക്കാക്കാൻ നാം പതിവുപോലെ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് കണക്കാക്കാം ഇത് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആണ് ഇതിനെ ഡിഎസ്ഒ എന്നും വിളിക്കുന്നു ഫ്രീക്വൻസി 5 കിലോ ഹെർട്സിൽനിന്ന് 50 ഹെർട്സ് എത്തുന്നതുവരെ താഴ്ത്തുന്നു ഒപ്പം ഓസിലോസ്കോപ്പിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo നിരീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പരീക്ഷണം നോക്കാം ചിത്രം കാണുക ഇതാണ് നിങ്ങളുടെ ആർ സി റെസിസ്റ്ററും കപ്പാസിറ്ററും ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹൈ പാസ് പാസീവ് ഫിൽറ്റർ ഉണ്ടാക്കാം ഇൻപുട്ടിൽ കപ്പാസിറ്ററും അതിനുശേഷം റെസിസ്റ്ററും ഉള്ളതിനാൽ ഇതൊരു ഫിൽറ്ററാണ് അപ്പോൾ കപ്പാസിറ്ററിന്റെ ഇൻപുട്ടിലും റെസിസ്റ്ററിന്റെ ഗ്രൌണ്ടിലും നിങ്ങൾക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യാം ഒന്ന് ഇൻപുട്ടും അടുത്തത് ഗ്രൌണ്ടുമാണ് ഈ ടെർമിനലും റെസിസ്റ്ററിന്റെ ഈ ടെർമിനലും സീരീസിൽ ആണുള്ളത് ഇവിടെയുള്ള ഹൈ പാസ് പാസീവ് ഫിൽറ്ററിലാണ് നാം പരീക്ഷണം നടത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വശം ഈ ബ്രെഡ്ബോർഡ് ഉണ്ട് ഇനി പതിവുപോലെ നമുക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാം ഓപ് ആംപിലേക്ക് ബയാസ് വോൾട്ടേജും നൽകേണ്ടതുണ്ട് ആക്ടീവ് കംപോണന്റ് ഇല്ലാത്തതിനാൽ ഇവിടെ പാസീവ് ഫിൽറ്ററിൽ ബയാസ്ഡ് വോൾട്ടേജ് ആണു നൽകേണ്ടത് അപ്പോൾ നമുക്ക് നേരിട്ട് കപ്പാസിറ്ററിലേക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യാം ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് റെസിസ്റ്ററിനു കുറുകെ ഔട്ട്പുട്ട് നിരീക്ഷിക്കുകയും ചെയ്യാം ഇതാ അദ്ദേഹം കപ്പാസിറ്ററിന്റെ ഇൻപുട്ടിലേക്ക് ഫങ്ഷൻ ജനറേറ്റർ കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളെന്താണ് കാണുന്നത് ഇവിടെ അദ്ദേഹം അപ്ലൈ ചെയ്തിരിക്കുന്നത് 5 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയാണ് 5 വോൾട്ട് പീക് ടു പീക് ആണ് ആംപ്ലിറ്റിയൂഡ് ഇത് ഗ്രൌണ്ട് ആണ് കപ്പാസിറ്ററിലേക്ക് ഇൻപുട്ട് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ട്പുട്ട് ഓസിലോസ്കോപ്പിലേക്കു കണക്ട് ചെയ്യണം ഞാൻ ഈ പ്രോബുകൾ കൈയിൽ പിടിക്കുന്നു ഇതിൽ ഒരെണ്ണം നീളം കൂടിയതും അടുത്തത് ചെറുതുമാണ് ഓസിലോസ്കോപ്പിലേക്ക് ഈ പ്രോബ് ആണ് കണക്ട് ചെയ്യേണ്ടത് നീളം കുറഞ്ഞത് ഗ്രൌണ്ട് ആയി കണക്ട് ചെയ്യുന്നു നീളം കൂടിയത് സിഗ്നലിലേക്കാണ് നൽകുന്നത് അപ്പോൾ ഇതാണ് നാം ചെയ്യുന്നത് ഇപ്പോൾ ബ്രെഡ്ബോർഡിൽ നിങ്ങൾ എന്താണ് കാണുന്നത് നീളം കൂടിയ പ്രോബ് സിഗ്നലിലേക്കും കുറഞ്ഞത് ഗ്രൌണ്ടിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ എത്ര പ്രോബുകൾ ഉണ്ടെങ്കിലും ഏറ്റവും നീളം കൂടിയത് ഇൻപുട്ടിലേക്കും നീളം കുറഞ്ഞത് ഗ്രൌണ്ടിലേക്കും കണക്ട് ചെയ്യണം ഇനി നമുക്ക് ഓസിലോസ്കോപ്പിലേക്കു ശ്രദ്ധിക്കാം നാം 5 വോൾട്ട് പീക് ടു പീക് ആണ് നൽകിയിട്ടുള്ളത് എന്ന് ഓർക്കുക ആ 5 വോൾട്ട് പീക് ടു പീക് ഔട്ട്പുട്ടിൽ ഇപ്പോൾ 5 28 വോൾട്ട് ആണ് ഇവിടെ മഞ്ഞയും നീലയുമാണ് യഥാക്രമം ഇൻപുട്ടും ഔട്ട്പുട്ടും ഔട്ട്പുട്ട് സ്വാഭാവികമായും ഇൻപുട്ടിനെ പിന്തുടരുന്നത് നിങ്ങൾക്കു കാണാം ഫ്രീക്വൻസി 5 കിലോ ഹെർട്സും പീക് ടു പീക് വോൾട്ടേജ് 5 28 വോൾട്ടും ആണ് ഇനി സ്ക്രീനിലേതുപോലെ നാം 5 കിലോ ഹെർട്സിൽനിന്ന് 50 ഹെർട്സിലേക്കു മാറ്റുന്നു അദ്ദേഹം 1 കിലോ ഹെർട്സ് വീതമാണ് കുറയ്ക്കുന്നത് ഇതാ ഇപ്പോൾ 4 കിലോ ഹെർട്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് ആംപ്ലിറ്റിയൂഡ് തുല്യമാണ് ഇനി ഓസിലോസ്കോപ് നോക്കൂ ഇപ്പോഴും അത് തുടരുന്നുണ്ട് വ്യത്യാസമില്ലാതെ ഫിൽറ്റർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് പാസീവ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററുമാണ് അതുകൊണ്ട് ലോ ഫ്രീക്വൻസി കടന്നുപോകാൻ പാടില്ല ഇപ്പോൾ 4 കിലോ ഹെർട്സിൽനിന്ന് 3 കിലോ ഹെർട്സിലേക്കു താഴ്ത്തുന്നു ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നതു കാണാം വീണ്ടും 2 കിലോ ഹെർട്സ് 1 കിലോ ഹെർട്സ് 400 ഹെർട്സ് എന്നിങ്ങനെ കുറയ്ക്കാം നമ്മൾ കണക്കാക്കിവച്ച fc എന്താണ് 100 ഹെർട്സ് ആണോ 150 ഹെർട്സ് ആണോ 150 മുതൽ 160 വരെ ഹെർട്സ് ആണ് നാം കണക്കാക്കിയ കട്ട് ഓഫ് ഫ്രീക്വൻസി അപ്പോൾ അവിടെ എത്തുന്നതുവരെ ഇൻപുട്ടും ഔട്ട്പുട്ടും നന്നായി പ്രവർത്തിക്കുന്നതു കാണാം ഫ്രീക്വൻസിയും കൃത്യമാണ് 300 ഹെർട്സ് കടത്തിവിടുന്നത് നിങ്ങൾക്കിവിടെ കാണാം 200 ഹെർട്സിലേക്കു താഴ്ത്തുമ്പോളും കടന്നുപോകുന്നുണ്ട് ഇപ്പോൾ പീക് ടു പീക് വോൾട്ടേജ് നോക്കൂ അത് കുറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് വോൾട്ടേജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഔട്ട്പുട്ട് കുറഞ്ഞുതുടങ്ങുന്നു ഞാൻ ഇവിടെ 159 ഹെർട്സിലേക്കു പോകുന്നു ഇപ്പോൾ ഇതു നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ തൊട്ടു താഴെയാണ് ഇനി പീക് ടു പീക് വോൾട്ടേജ് നിരീക്ഷിക്കാം ഔട്ട്പുട്ടിൽ നീലനിറത്തിൽ കാണുന്ന അത് 3 68 വോൾട്ട് ആണ് ഇൻപുട്ട് 5 12 വോൾട്ട് ആണ് ഫ്രീക്വൻസി 159 2 ഹെർട്സ് ആണ് അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 5√2 ആയിരിക്കും അങ്ങനെയാണ് അത് കണക്കാക്കുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു താഴെ ഇൻപുട്ടിന് അനുസൃതമായി അത് എങ്ങനെയാണ് മാറുന്നതെന്ന് നിങ്ങൾക്കറിയാം ഞാൻ വീണ്ടും ഫ്രീക്വൻസി കുറച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കാ ആ മാറ്റം തുടർന്നു കാണാം ശരി ഞാൻ 50 ഹെർട്സിനടുത്തേക്ക് കുറയ്ക്കുന്നു നോക്കൂ ഔട്ട്പുട്ട് വോൾട്ടേജ് 1 84 വോൾട്ടിലേക്കു താഴ്ന്നു ഫ്രീക്വൻസി കടത്തിവിടാൻ സാധിക്കുന്നുമില്ല വോൾട്ടേജ് കുറഞ്ഞതു നോക്കൂ ഇത് പാസീവ് കംപോണന്റ്സ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇത് പാസീവ് കംപോണന്റ് ഉപയോഗിച്ചുള്ള ഹൈ പാസ് ഫിൽറ്ററാണ് നാം നിരീക്ഷിച്ചറിഞ്ഞ കാര്യം എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു താഴെ എത്തുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് താഴ്ന്നുതുടങ്ങുന്നു കഴിഞ്ഞ മൊഡ്യൂളിൽ നാം നിർത്തിയ ഭാഗം വീണ്ടും നോക്കാം ആക്ടീവ് ഹൈ പാസ് രൂപകല്പന ചെയ്യുന്നത് ഇവിടെ നാം പാസീവ് കംപോണന്റ്സ് ഉപയോഗിച്ചുള്ള ഹൈ പാസ് ഫിൽറ്റർ കണ്ടു ഇൻപുട്ട് സിഗ്നലിനു വിധേയമായി എങ്ങനെയാണ് ഔട്ട്പുട്ട് വ്യത്യാസപ്പെടുന്നതെന്നും നാം കണ്ടു 159 ഹെർട്സ് എന്ന കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു താഴെയുള്ള ഫ്രീക്വൻസികൾ കടത്തിവിടുന്നില്ലെന്നും നമുക്കറിയാം അപ്പോൾ ഇനി നാം ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിക്കുന്നു എന്നു കരുതുക അതായത് ഞാൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു ഈ സാഹചര്യത്തിൽ ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിനെക്കുറിച്ചു കൂടുതൽ പഠിക്കാൻ ചിത്രം 8 ൽ കാണുന്നതുപോലെ സർക്യൂട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട് ചിത്രം നോക്കൂ R1 10 കിലോ ഓം R2 10 കിലോ ഓം എന്നിങ്ങനെ വാല്യൂ ഉള്ളതിനാൽ ഇവിടെ ഗെയിൻ 1 ആയിരിക്കും C 0 1 മൈക്രോ ഫാരഡ് ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്കറിയാം 12πRC ആണ് അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി 159 15 ഹെർട്സ് 160 ഹെർട്സ് ആണ് ഇപ്പോൾ ഇവിടെ നാം എന്തുചെയ്യും നോക്കൂ ഏതാണ്ടെല്ലാം നാം നേരത്തേ പരീക്ഷിച്ചതിനു തുല്യമാണ് പക്ഷേ ഇവിടെ നാം ആക്ടീവ് കംപോണന്റ് ഉപയോഗിക്കുന്നുണ്ട് വീണ്ടും നമുക്ക് 5 വോൾട്ട് പീക് ടു പീക് സൈൻ വേവ് 150 ഹെർട്സിൽ നേരിട്ട് V1ൽ നൽകാം 20 ഹെർട്സ് വീതം ഘട്ടങ്ങളായി ഉയർത്തുകയും ചെയ്യാം ഇതാ നാം കുറഞ്ഞ ഫ്രീക്വൻസി അപ്ലൈ ചെയ്തശേഷം ക്രമേണ ഉയർത്തുന്നു പാസീവ് ഫിൽറ്ററിൽ നമ്മൾ ചെയ്തത് ഓർക്കുമല്ലോ അവിടെ നാം ഹൈ ഫ്രീക്വൻസിയിലാണ് തുടങ്ങിയത് 160 ഹെർട്സിനു താഴേക്ക് കുറയ്ക്കുകയാണ് പിന്നീടു ചെയ്തത് ഇവിടെ നമ്മൾ അതിന്റെ വിപരീതമാണ് ചെയ്യുക 50 ഹെർട്സിൽ തുടങ്ങി ഘട്ടങ്ങളായി ഉയർത്തും നമുക്ക് Vo ൽ ഔട്ട്പുട്ട് നിരീക്ഷിക്കണം പീക് ടു പീക് വാല്യൂ കുറിച്ചുവയ്ക്കുകയും വേണം ഫ്രീക്വൻസി കട്ട് ഓഫിലാണ് A√2 അതു നിരീക്ഷിക്കേണ്ടത് കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു താഴെ ആംപ്ലിറ്റിയൂഡ് സപ്രസ്സ് ചെയ്യപ്പെടും കട്ട് ഓഫ് ഫ്രീക്വൻസി fc എത്തുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ മാറുന്നു എന്നാണ് അറിയേണ്ടത് ഫിൽറ്ററിന്റെ ഗെയിൻ ഉയർത്തുന്നതിന് ആർ2 100 കിലോ ഓം ആക്കണം ഇപ്പോൾ ആർ2 ആർ1 എന്നിവ രണ്ടിന്റെയും വാല്യൂ 10 കിലോ ഓം വീതമാണ് ഗെയിൻ ഉയർത്താൻ ആർ2 ന്റെ വാല്യൂ 100 കിലോ ഓം ആക്കുന്നു അപ്പോൾ ഗെയിൻ 10 അല്ലെങ്കിൽ 11 ആയിരിക്കും ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ ഗെയിൻ 10 ആയിരിക്കുമല്ലോ എന്തായാലും ഇപ്പോൾ R2 R1 എന്നിവ രണ്ടും 10 കിലോ ഓം വീതം ആയതിനാൽ ഗെയിൻ 1 ആണ് അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്തുനോക്കാം ഔട്ട്പുട്ടിൽ എന്തു സിഗ്നലുകളാണ് ലഭിക്കുന്നതെന്ന് നിരീക്ഷിക്കാം നമുക്ക് ബ്രെഡ്ബോർഡിൽ നമുക്ക് ഹൈ പാസ് ആക്ടീവ് ഫിൽറ്ററിന്റെ സർക്യൂട്ട് നോക്കാം ഇതാ ബ്രെഡ്ബോർഡിൽ കപ്പാസിറ്ററും റെസിസ്റ്ററുമുണ്ട് സ്ക്രീനിൽ കണ്ടതുപോലെത്തന്നെയാണ് സർക്യൂട്ട് ഇവിടെ നാം ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു മുമ്പു പറഞ്ഞിട്ടുള്ളതുപോലെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോൾ നാം ആദ്യം ഓർമിക്കേണ്ട കാര്യം ബയാസ് വോൾട്ടേജ് നൽകുക എന്നതാണ് ഡിസി പവർ സപ്ലൈയിൽനിന്നാണ് ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഇതാ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്ക് ഡിസി പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നു അതായത് ഓപ് ആംപിലേക്ക് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു ഇനി അദ്ദേഹം ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് നൽകുക എന്നതാണ് ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിന്റെ കപ്പാസിറ്ററിലേക്കാണ് ഇൻപുട്ട് സിഗ്നൽ നൽകുന്നത് ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിൽ കപ്പാസിറ്റർ റെസിസ്റ്ററുകളിലേക്കും അവ ഇൻവെർട്ടഡ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ നാം നേരത്തേ തീരുമാനിച്ച ഇൻപുട്ട് സിഗ്നൽ 5 വോൾട്ട് 50 ഹെർട്സ് അപ്ലൈ ചെയ്യുന്നു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഓസിലോസ്കോപ്പിലേക്കു കണക്ട് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാം നിരീക്ഷിക്കുന്നത് ഓസിലോസ്കോപ്പിലാണ് നോക്കൂ മഞ്ഞനിറത്തിൽ കാണുന്നതാണ് ഇൻപുട്ട് നീല നിറമുള്ളത് ഔട്ട്പുട്ടാണ് 5 വോൾട്ട് ഇൻപുട്ടിന് 1 68 വോൾട്ട് ആണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി 50ൽനിന്ന് 70 ഹെർട്സിലേക്ക് ഉയർത്തുമ്പോൾ ഔട്ട്പുട്ട് 2 16 വോൾട്ട് ആവുന്നു അപ്പോൾ 5 വോൾട്ട് അല്ല എന്നു വ്യക്തമാണല്ലോ ഇപ്പോഴും ഫ്രീക്വൻസി കടത്തിവിടാൻ സാധിക്കുന്നില്ല അപ്പോൾ പടിപടിയായി ഫ്രീക്വൻസി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു 90 ഹെർട്സിൽ നോക്കൂ കടത്തിവിടുന്നില്ല 100 ആക്കി ഉയർത്തുമ്പോഴും ഫ്രീക്വൻസി കടത്തിവിടുന്നില്ല പീക് ടു പീക് വോൾട്ടേജ് കൃത്യമായി നിരീക്ഷിക്കൂ ഇതാ പീക് ടു പീക് വോൾട്ടേജ് 2 88 വോൾട്ട് ആണ് ഇൻപുട്ട് സിഗ്നൽ 5 12 വോൾട്ടാണ് ഫ്രീക്വൻസി 100ൽനിന്ന് 120 ഹെർട്സിലേക്ക് ഉയർത്തിയിട്ടും കടത്തിവിടാൻ കഴിയുന്നില്ല ഇപ്പോൾ നോക്കൂ വോൾട്ടേജ് 3 20 വോൾട്ട് ആണ് 150 153 60 ഹെർട്സ് എന്നിട്ടും കടത്തിവിടുന്നില്ല നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി 159 15 ഹെർട്സ് ആണ് അതിനു മുകളിൽ ഉയർത്തിക്കൊണ്ടിരുന്നാലും വോൾട്ടേജിൽ കാര്യമായ വ്യത്യാസം കാണുന്നില്ല വളരെ നേരിയ നിലയിൽ 5√ 2 ആകുമ്പോൾ 3 76 വോൾട്ട് വീണ്ടും ഫ്രീക്വൻസി ഉയർത്തുമ്പോൾ 4 72 വോൾട്ട് എന്നിങ്ങനെയാണ് കാണുന്നത് 4 72 വോൾട്ട് എന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലായ 5 വോൾട്ടിന്റെ ഏകദേശം ഒപ്പം എത്തി ഫ്രീക്വൻസി വീണ്ടും കൂട്ടിനൽകുന്നു ഇൻപുട്ട് സിഗ്നലിനു സമാനമായി അതേ പീക് ടു പീക് വോൾട്ടേജാണ് പിന്തുടരുന്നത് 1 5 കിലോ ഹെർട്സ് 2 കിലോ ഹെർട്സ് 2 5 കിലോ ഹെർട്സ് എന്നിങ്ങനെ ഫ്രീക്വൻസി കൂട്ടിനൽകുമ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ ഇൻപുട്ട് സിഗ്നലിനെ പിന്തുടരുന്നു ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഇതിലൂടെ മനസിലാക്കാം അപ്പോൾ നാം കണ്ടത് എന്തെന്നാൽ പാസീവ് ഹൈ പാസ് ഫിൽറ്ററോ ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററോ രൂപകല്പന ചെയ്യുന്നത് വളരെ ലളിതമായ കാര്യമാണ് പാസീവ് ഹൈ പാസ് ഫിൽറ്ററിനുള്ള ഫോർമുല 12πRC ആണ് ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിനും അതേ ഫോർമുലതന്നെയാണ് എന്നാൽ ആക്ടീവ് ഹൈ പാസ് ഫിൽറ്ററിൽ റെസിസ്റ്ററുകളുടെ വാല്യൂ മാറ്റിക്കൊണ്ട് ഫിൽറ്ററിന്റെ ഗെയിൻ മാറ്റാം പാസീവ് ഫിൽറ്ററിൽ ഗെയിൻ മാറ്റുക സാധ്യമല്ല ഇൻപുട്ട് സിഗ്നൽ നൽകൽ ഔട്ട്പുട്ട് സിഗ്നൽ നിരീക്ഷിക്കൽ കട്ട് ഓഫ് ഫ്രീക്വൻസി അനുസരിച്ച് സിഗ്നലുകൾ കടന്നുപോകുന്നുവോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസിലാക്കാവുന്നതുമാണ് ഹൈ പാസ് ഫിൽറ്ററിൽ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു താഴെയുള്ള ലോ ഫ്രീക്വൻസി കടന്നുപോകാൻ അനുവദിക്കില്ല ലോ പാസ് ഫിൽറ്ററിലാകട്ടെ കട്ട് ഓഫ് ഫ്രീക്വൻസിക്കു മുകളിലുള്ള ഫ്രീക്വൻസി കടന്നുപോകില്ല ഈ പരീക്ഷണങ്ങൾകൊണ്ട് എങ്ങനെ പാസീവ് ഫിൽറ്ററുകളായ ലോ പാസ് ഹൈ പാസ് ഫിൽറ്ററുകൾ അതായത് ആർസി ഫിൽറ്ററുകൾ രൂപകല്പന ചെയ്യാമെന്നു നിങ്ങൾ പഠിച്ചതായി ഞാൻ കരുതുന്നു അതേപോലെ ആർസിയും ഓപ് ആംപും ഉപയോഗിച്ചുള്ള ലോ പാസ് ഹൈ പാസ് ആക്ടീവ് ഫിൽറ്ററുകളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു കൂടുതൽ വ്യക്തതയ്ക്കായി തിയറി ക്ലാസ് മുതൽ വീണ്ടും വായിക്കുക എക്സ്പെരിമെന്റ് കൃത്യമായി മനസിലാക്കുകയും ഈ പ്രത്യേക മൊഡ്യൂളുകൾ വീണ്ടും നോക്കുകയും ചെയ്യുക ലബോറട്ടറിയിൽ ചെന്നു ഈ എക്സ്പെരിമെന്റുകൾ ചെയ്തുനോക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഗുണപ്രദം പരിചയസമ്പന്നനായ ഒരാളുടെ സഹായത്തോടെയോ കൂട്ടുകാർക്കൊപ്പമോ എക്സ്പെരിമെന്റുകൾ ചെയ്തുനോക്കാം ആക്ടീവ് ഹൈ പാസ് ഫിൽറ്റർ ആക്ടീവ് ലോ പാസ് ഫിൽറ്റർ പാസീവ് ഹൈ പാസ് ഫിൽറ്റർ പാസീവ് ലോ പാസ് ഫിൽറ്റർ എന്നിവയുടെ രൂപകല്പന ആ വിധം കൃത്യമായി പഠിക്കാൻ ശ്രമിക്കാം ഫിൽറ്ററിൽ ഓപ് ആംപ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് കൂടുതൽ വ്യക്തമായി പഠിച്ചിരിക്കുമെന്നു കരുതുന്നു അടുത്ത സെറ്റ് ഫിൽറ്ററുകളുമായി നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം ബാൻഡ് പാസ് ഫിൽറ്റർ ബാൻഡ് റിജക്ട് ഫിൽറ്റർ എന്നിവയാകും അടുത്ത ക്ലാസിൽ ചർച്ച ചെയ്യുക അതുവരെ എല്ലാവർക്കും നമസ്കാരം